എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ ലെക്ചർ നമ്പർ 23ലേക്ക് സ്വാഗതം ഇന്റഗ്രൽ കാൽക്കുലസിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഇംപ്രോപ്പർ ഇന്റഗ്രലുകൾ ടൈപ്പ് 1 ഇന്റഗ്രലുകളുടെ കൺവെർജെൻസ്നെക്കുറിച്ചുള്ള ചർച്ച തുടരും മുൻ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലത്ത ഒരു പരീക്ഷണം കൂടി ഉണ്ട് അതിനെ ഡിറിക്ലെറ്റിന്റെ പരിശോധന Dirichlet's test എന്ന് വിളിക്കുന്നു ടൈപ്പ് 1 ഇംപ്രോപ്പർ ഇന്റഗ്രലുകളുടെ കൺവെർജെൻസ് പരിശോധിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണിത് f g എന്നി രണ്ട് ഫംഗ്ഷനുകൾ a മുതൽ വരെ നിർവചിച്ചിരിക്കുന്നുവെന്നു കരുതുക അവ വാസ്തവിക സംഖ്യ എടുക്കുന്നു f ഓരോ a b ഇടവേളയിലും ഇന്റഗ്രബിൾ ആയവയാണ് b യ്ക്ക് a നേക്കാൾ വലിയ മൂല്യം എടുക്കാം അതിനാൽ f ഓരോ ഇന്റഗ്രലിലും a b b a ഇന്റഗ്രബിൾ ആകുന്നു ഇന്റഗ്രൽ രണ്ടാമത്തെ കണ്ടിഷനാണ് ഈ ഇന്റഗ്രലുകൾ യൂണിഫോമായി ബൌൺഡഡ് ആയിരിക്കുന്നു അതിനാൽ ഇന്റഗ്രൽ b ക്ക് ഏത് മൂല്യവും എടുക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ b യിൽ പരിമിതപ്പെടുത്തുന്നില്ല അതിനാൽ ഇവിടെ C എന്ന സംഖ്യ നിലവിലുണ്ടെന്നതിന്റെ അർത്ഥമെന്താണ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇന്റഗ്രലിന്റെ മൂല്യം എല്ലാത്തിനും b a അയിരിക്കും സ്വാഭാവികമായും b ഒരു ഫൈനെറ്റ് സംഖ്യയാണ് അതിനാൽ b യുടെ ഏത് മൂല്യത്തിനും ba ആകുമ്പോൾ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് c ഉപയോഗിച്ച് ബൌൺഡഡ് ആണെങ്കിൽ c സംഖ്യ bയെ ആശ്രയിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇത് ഏകീകൃതമായി ബൌൺഡ് ചെയ്തിരിക്കുന്നു അതിനാൽ f ലെ രണ്ട് വ്യവസ്ഥകൾ ഇവയാണ് f ഇന്റഗ്രബിളാണ് യൂണിഫോമായി ബൌൺഡഡുമാണ് ഫംഗ്ഷൻ g മോണോടോണും ബൌൺഡടുമാണ് അതിനാൽ g ഒന്നുകിൽ മോനോടോണിക്കലി വർദ്ധിക്കുകയോ മോനോടോണിക്കലി കുറയുകയോ ചെയ്യുന്നു അതിനാൽ ഈ ഫംഗ്ഷനുകളുടെ മൂല്യങ്ങൾ ഫൈനെറ്റുമാണ് ബൌൺഡടുമാണ് തുടർന്ന് ഉണ്ട് അതിനാൽ ആയി 0 ലേക്ക് അടുക്കുമ്പോൾ g ഒരു മോണോടോണിക് ഫംഗ്ഷനാണ് ഇത് മറ്റൊരു കണ്ടിഷനാണ് ഈ സാഹചര്യത്തിൽ ഇംപ്രൊപ്പർ ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ പ്രോഡക്റ്റ് ഇന്റഗ്രന്റ് f g കൺവെർജ് ചെയ്യുന്നു ഈ ഫലത്തിന്റെ തെളിവിലൂടെ ഞങ്ങൾ പോകില്ല ഇവിടെ പ്രധാനം ഈ ഇന്റഗ്രലുകൾ യൂണിഫോമായി ബൌൺഡഡ് ആകുന്നുണ്ടോയെന്ന് പരിശോധിക്കുക എന്നതാണ് അതിനാൽ ഈ ഇന്റഗ്രൽ കണക്കുകൂട്ടേണ്ടതുണ്ട് കൂടാതെ ആ ഇന്റഗ്രലിനെ കോൺസ്റ്റന്റ് c ഉപയോഗിച്ച് ബൌൺഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക ഇത് ഏതൊരു ഫൈനെറ്റ് സംഖ്യ b യിൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ യൂണിഫോംലി ബൌണ്ടഡ്നെസ്സ് എന്ന കണ്ടിഷനാണ് ഇവിടെ ഉള്ളത് രണ്ടാമത്തേത് g മോണോടോൺ ആണ് അതിനാൽ ആകുമ്പോൾ മോനോടോണിക്കലി ഇത് 0 ലേക്ക് പോകുന്നു അതിനാൽ ഇവിടെ രണ്ട് പ്രധാന വ്യവസ്ഥകൾ ഉണ്ട് ഇന്റഗ്രൽ പ്രോഡക്റ്റ്കൾ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു ഇന്റഗ്രലാണ് കാരണം അവയിലൊന്ന് നമുക്കറിയാമെങ്കിൽ ഉദാഹരണത്തിന് g ഇവിടെ ബൌണ്ടഡ്ഡും മോണോടോണും ആയി 0 ലേക്ക് പോകുന്നു ഇന്റഗ്രൽ f കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഈ പ്രോഡക്റ്റ്നെക്കുറിച്ചും ഈ ഇന്റഗ്രലിന് എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചും നമുക്ക് നിഗമനം ചെയ്യാം ഈ വ്യവസ്ഥകൾ തൃപ്തികരമാണെങ്കിൽ അത് കൺവെർജ് ചെയ്യും ഉദാഹരണത്തിന് p 0 ആകുമ്പോൾ കൺവെർജെന്റ് ആണെന് ഫലത്തിൽനിന്ന് എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും ഇത് ഡിറിക്ലെറ്റ് ടെസ്റ്റിന്റെ സഹായത്തോടെ ഞങ്ങൾ കാണിക്കും ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ ഇത് ഇവിടെ എങ്ങനെ ഉപയോഗപ്രദമാകും ആകുമ്പോൾ പോസിറ്റീവ് p ക്ക് g മോനോടോണിക്കലി 0ലേക് കുറയുന്നു ഇന്റഗ്രൽ sin x നെ എളുപ്പത്തിൽ കാണിക്കാൻ കഴിയും അതിനാൽ ഈ ഇന്റഗ്രൽ ആയിരിക്കും ലിമിറ്റ് 1 മുതൽ b വരെയുണ്ട് അതിനാൽ ഇതായിരിക്കും ഈ ഇന്റഗ്രൽ മൂല്യം തുടർന്ന് ഇവയുടെ കേവല മൂല്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ cos എല്ലായ്പ്പോഴും 1 കൊണ്ട് ബൌൺഡ്ടാണ് ഈ അസമത്വം ഇവിടെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഈ സാഹചര്യത്തിൽ ഇത് 2 കൊണ്ട് ബൌൺഡ് ചെയ്തിരിക്കുന്നു b യുടെ ഏത് മൂല്യത്തിനും ഈ ഇന്റഗ്രൽ 2 കൊണ്ട് ബൌൺഡ് ചെയ്തിരിക്കുന്നുവെന്ന് നമുക്ക് എളുപ്പത്തിൽ കാണിക്കാൻ കഴിയും അത് 1നേക്കാൾ വലുതും യേക്കാൾ കുറവുമാണ് ഈ ഇന്റഗ്രലിന്റെ യൂണിഫോം ബൌണ്ടഡ്നെസ്സ്ന് ഇതാണ് വേണ്ടത് മറ്റൊരു ഫംഗ്ഷൻ g ഇത് മോനോടോണിക്കലി കുറയുന്നു യാകുമ്പോൾ പോസിറ്റീവ് pയുടെ ഏത് മൂല്യത്തിനും സ്വാഭാവികമായും 0ലേക് അടുക്കുന്നു അതിനാൽ ഡിറിക്ലെറ്റ് ടെസ്റ്റ് ഉപയോഗിച്ച് ഇന്റഗ്രൽ sin x നെക്കുറിച്ചും പ്രോഡക്റ്റ് നെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം അതായത് ഇന്റഗ്രൽ p 0 ന്റെ ഏത് മൂല്യത്തിനും കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഡിറിക്ലെറ്റ് പരിശോധന വളരെ ഉപയോഗപ്രദമാണ് രണ്ട് ഫംഗ്ഷന്റെ അനുപാതമായി ഞങ്ങൾ വീണ്ടും പരിഗണിച്ചു ഒന്ന് f മറ്റൊന്ന് g f എന്ന ഈ ഫംഗ്ഷന് യൂണിഫോം ഇന്റെഗ്രേബിലിറ്റിയിൽ ഒരു നല്ല പ്രോപ്പർട്ടിയുണ്ട് രണ്ടാമത്തേത് മോനോടോണിക്കലി 0ലേക് അടുക്കുന്നു അതിനാൽ ഡിറിക്ലെറ്റ് പരിശോധനയിലൂടെ ഇതു കൺവെർജ് ചെയ്യുന്നുവെന്ന് നമുക്ക് നിഗമനം ചെയ്യാം ഇത്തരത്തിലുള്ള മറ്റൊരു ന്റെ കൺവെർജെൻസ് ഇവിടെ പരിശോധിക്കാം

കൺവെർജന്റാണ് കൂടാതെ പ്രോപ്പർ ഇന്റഗ്രലാണ് ശ്രദ്ധിക്കുക മോനോടോണാണ് കൂടാതെ അതിനാൽ ഏത് മൂല്യത്തിനും a പോസിറ്റീവാണ് അതിനാൽ ഇത് എളുപ്പത്തിൽ വീണ്ടും തെളിയിക്കാൻ കഴിയും ഇത് e പവർ മൈനസ് x cos x അതിനാൽ ഇത് ആദ്യത്തെ പ്രശ്നമായിരുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ആശയം ഉപയോഗിച്ചു ഈ ഫംഗ്ഷൻ എളുപ്പത്തിൽ വിഭജിക്കാൻ കഴിയും

അതിനാൽ x → ∞ ഉം മറ്റെല്ലാ ഘട്ടത്തിലും സിംഗുലാരിറ്റി ഇല്ലാതിരിക്കുമ്പോഴും അൺബൌൺഡ്ട്നെസ്സ് അവസ്ഥയുണ്ടാകുമ്പോൾ ഇന്റഗ്രലിന്റെ ലിമിറ്റ് നിലവിലുണ്ട് അതിനാൽ ആദ്യത്തേത് പ്രോപ്പർ ഇന്റഗ്രലാണ് രണ്ടാമത്തേതിൽ യാകുമ്പോൾ ഏത് തരത്തിലുള്ള ഫലം ലഭിക്കുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്റഗ്രൽ a മുതൽ b വരെ എടുക്കുന്നു അതിനാൽ ഇന്റഗ്രൽ ഒന്നിനുശേഷം b dx എന്നെടുക്കാം അപ്പോൾ x 1 മുതൽ b വരെയുള്ള ഏത് സംഖ്യയിലേക്കും പോകുന്നു അതിനാൽ x നമുക്ക് മാറ്റിസ്ഥാപിക്കാൻ കഴിയുo കാരണം ഇത് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് അതിനാൽ ഇന്റഗ്രൽ വലുതായിരിക്കും അതിനാൽ നമുക്ക് 1 മുതൽ b വരെ ഉണ്ട് ഈ x നെ ഏറ്റവും കുറഞ്ഞ മൂല്യം 1 കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇന്റഗ്രന്റ് വലുതാണ് അതിനാൽ ഇന്റഗ്രൽ ന്നിനേക്കാൾ വലുതാണ് ഇത് 1 മുതൽ b വരെ cos x കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഈ മൂല്യം cos 1 b cos b ആയിരിക്കും കൂടാതെ ഇവിടെ കേവല മൂല്യം എടുക്കാം അതിനാൽ ഈ ഫംഗ്ഷനുകളുടെ ഈ കേവല മൂല്യം വീണ്ടും ഇവിടെ കേവല മൂല്യമായിരിക്കും അത് 2 കൊണ്ട് ബൌൺഡ്ടായിരിക്കുന്നു അതിനാൽ ഇവിടെ b 1 ന്റെ ഏത് ഫൈനെറ്റ് മൂല്യത്തിനും ഇന്റഗ്രൽ ആണെന്ന് തെളിയിക്കാൻ കഴിയും ഇത് യൂണിഫോംലി ബൌൺഡ്ടാണ് ഇതിനു മൂല്യം 2 ആണ് അതിനാൽ ഫംഗ്ഷൻ മോണോടോൺ ആണ് എടുത്താൽ 0 ലേക്ക് സമീപിക്കുന്നു അതിനാൽ ആ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈയാകുന്നു അതിനാൽ ഇവിടെ ഡിറിക്ലെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാം കാരണം ഇന്റഗ്രൽ മോണോടോൺ യൂണിഫോംലി ബൌൺഡ്ടാണ്ന്ന് ഞങ്ങൾ കണ്ടു മറ്റൊന്ന് ഇവിടെ g അതായത് ഇത് 0ലേക്ക്പോകുന്നു ഇപ്പോൾ ഡിറിക്ലെറ്റ് ടെസ്റ്റ് പ്രയോഗിക്കാൻ കഴിയും ഇത് ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നുവെന്ന് പറയുന്നു അതിനാൽ ഇന്റഗ്രൽ നന്നായി കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഒരു പ്രോബ്ലംകൂടി ചെയ്യുന്നു അത് പ്രോബ്ലം നമ്പർ 2 അതിനാൽ ഇവിടെ ഉണ്ട് ഇവയെ വീണ്ടും നമുക്ക് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം ഒരു ഇന്റഗ്രലും മറ്റൊരു ഇന്റഗ്രലുമാണ് അതിനാൽ ഈ ആദ്യത്തെ ഇന്റഗ്രൽ ഇത് തികച്ചും കൺവെർജ് ചെയ്യുന്നു കാരണം താരതമ്യ പരിശോധനയിലൂടെ നമുക്ക് എളുപ്പത്തിൽ നിഗമനം ചെയ്യാൻ കഴിയും കാരണം ഇത് ഈ ആശയം തീർച്ചയായും ഞങ്ങൾ വീണ്ടും വിശദീകരിക്കും അതിനാൽ ഇന്റഗ്രന്റ് ന്റെ അബ്സോലൂട്ട് മൂല്യo കൺവെർജ് ചെയ്യുന്നു കാരണം cos x മൂല്യങ്ങൾ 1ൽ ബൌൺഡ്ടായിരിക്കുന്നു അതിനാൽ കൺവെർജ് ചെയ്യുന്നു കാരണം ഫംഗ്ഷൻ ഡോമിനേറ്റിങ് ഫംഗ്ഷനാണു അതിനാൽ സ്വാഭാവികമായും ആ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു രണ്ടാമത്തേതിന് നമുക്ക് വീണ്ടും അതേ വാദം ഉപയോഗിക്കാം കാരണം ഇത് വീണ്ടും ആണ് അതിനാൽ ഇവിടെ ഈ മൂല്യം 1 കൊണ്ട് ബൌൺഡ്ടായിരിക്കുന്നു കാരണം ഡിക്രീസിങ് ഫംഗ്ഷനാണ് അതിനാൽ ഇത് ഏറ്റവും ഉയർന്ന മൂല്യം എടുക്കും അതിനുശേഷം നമുക്ക് x→a ഉണ്ട് ഏത് സാഹചര്യത്തിലും ഇത് b യെ 1 കൊണ്ട് ബൌൺഡ്ടായിരിക്കുന്നു അതിനാൽ ഈ രണ്ടാമത്തെ ഇന്റഗ്രന്റും കൊണ്ട് ബൌൺഡ്ടായിരിക്കുന്നു അതിനാൽ താരതമ്യ പരിശോധനയിലൂടെ ഇതു തികച്ചും കൺവെർജ് ചെയ്യുന്നുവെന്ന് നമുക്ക് വീണ്ടും നിഗമനം ചെയ്യാം നമുക്ക് ഇവിടെ ഡിറിക്ലെറ്റ് ടെസ്റ്റും ഉപയോഗിക്കാം കാരണം നമുക്ക് എടുക്കാം അതിനാൽ നിങ്ങൾക്ക് ഈ ഡിറിക്ലെറ്റ് ടെസ്റ്റ് ഇവിടെ ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഫംഗ്ഷൻ എടുക്കാം യാകുമ്പോൾ ഫംഗ്ഷൻ 0ലേക്ക് അടുക്കുന്നു മോണോടോൺ ഫംഗ്ഷൻ കുറയുന്നു കൂടെ ഉം കുറയുന്നു അതിനാൽ രണ്ട് ഫംഗ്ഷനുകളും x ന്റെ ഏത് മൂല്യങ്ങൾക്കും കുറയുന്നു 2 കൊണ്ട് ബൌൺഡ്ടായിരിക്കുന്നുവെന്ന് നമുക്ക് വീണ്ടും കാണിക്കാൻ കഴിയും അതിനാൽ മുമ്പത്തെ പ്രശ്നങ്ങളിൽ ചെയ്തതു പോലെ ഡിറിക്ലെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാം അതിനാൽ ഇത് പ്രോബ്ലം നമ്പർ 1 ന് സമാനമാണ് അതിനാൽ തന്നിരിക്കുന്ന ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഇന്റഗ്രൽ ഞങ്ങൾ സാധാരണയായി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല പകരം bയുടെ സ്ഥാനത്തു ഇൻഫിനിറ്റി വരുന്ന ഇന്റഗ്രലുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനാൽ a ടു ഇൻഫിനിറ്റി തരത്തിലുള്ള ഇന്റഗ്രലുകളാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇതും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനാകും കാരണം ഇവിടെ പകരമായി x t എടുക്കുന്നു ഈ ഇന്റഗ്രൽ മൈനസ് മാത്രമായിരിക്കും അതിനാൽ വീണ്ടും സമാനമായ തരം ഇന്റഗ്രൽ ഉണ്ട് അത് ഇൻഫിനിറ്റിയിൽ കൺവെർജ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത രീതിയിൽ കൺവെർജെൻസ് ചർച്ചചെയ്യാം അതിനാൽ അബ്സോലൂട്ട് കൺവെർജെൻസ്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേവല സംയോജനം എന്നതിനർത്ഥം ഇന്റഗ്രന്റ് തികച്ചും കൺവെർജ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ തികച്ചും കൺവെർജ് ചെയ്യുന്നു കാരണം ഇവിടെ 0 മുതൽ വരെയുള്ള റേഞ്ച്ൽ ഈ ഇന്റഗ്രലിന്റെ പോസിറ്റീവ് മൂല്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിനാൽ ഇത് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ ഈ ഇന്റഗ്രൽ തികച്ചും കൺവെർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിളിക്കുന്നു ഇനിയും ഒരു പദം കൂടി ഉണ്ട് ഈ ഇന്റഗ്രൽ അബ്സോലൂട്ട്ലി കൺവെർജ് ചെയ്യുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ ഈ ഇന്റഗ്രൽ കണ്ടിഷണലി കൺവെർജ് ചെയ്യുന്നുവെന്ന് സാധാരണയായി വിളിക്കുന്നു ഉദാഹരണത്തിന് p1ന്റെ ഏത് മൂല്യത്തിനും ഈ ഇന്റഗ്രൽ പൂർണ്ണമായും കൺവെർജ് ചെയ്യുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയും മുമ്പത്തെ ഉദാഹരണത്തിൽ ഇതേ ആശയം വ്യക്തമാണ് അതിനാൽ ഇവിടെ നമുക്ക് പരിമിതികളുണ്ട് ഈ സംയോജനത്തിന്റെ സമ്പൂർണ്ണ മൂല്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് അതിനാൽ ഇവിടെ x പോസിറ്റീവ് മൂല്യങ്ങൾ എടുക്കുന്നു p 1 അതിനാൽ ഇവിടെ നമുക്ക് ഉണ്ട് കാരണം ഇത് പോസിറ്റീവ് ആണ് അതിനാൽ ഞങ്ങൾ ഇവിടെ കേവല മൂല്യം ഉപയോഗിക്കേണ്ടതില്ല ഒരിക്കലും 1 നെക്കാൾ വലിയ മൂല്യം എടുക്കാത്തതിനാൽ ഇത് കൊണ്ട് ബൌൺഡ്ടായിരിക്കുന്നു അതിനാൽ താരതമ്യ പരിശോധനയിലൂടെ നമുക്കറിയാം ഇന്റഗ്രൽ അതിനാൽ ഈ ഇന്റഗ്രലും കൺവെർജ് ചെയ്യുന്നുവെന്ന് താരതമ്യ പരിശോധനയിലൂടെ ഞങ്ങൾ ഇവിടെ കാണിച്ചു അതിനാൽ ഇന്റഗ്രന്റ് എടുക്കുന്നു ഇത് യാണ് ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുമെന്നു നമുക്കറിയാം അതിനാൽ താരതമ്യ പരിശോധനയിലൂടെ ഇത് തികച്ചും കൺവെർജ് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്നു അതിനാൽ കാരണം നിലവിൽ റേഞ്ചിൽ പോസിറ്റീവ് നെഗറ്റീവ് മൂല്യങ്ങൾ എടുക്കുന്നു അതിനാൽ ഞങ്ങൾ എല്ലാ പോസിറ്റീവ് മൂല്യങ്ങളും എടുക്കുകയാണെങ്കിൽ p1 സാഹചര്യത്തിലും ഇതിനായുള്ള ഇന്റഗ്രൽ കൺവെർജെൻസ് പ്രധാനമാണ് P 1 ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ തീർച്ചയായും കൺവെർജ് ചെയ്യുകയില്ല അത് ഞങ്ങൾ പിന്നീട് കാണും അതിനാൽ അടുത്ത പ്രശ്നത്തിലേക്ക് പോകുന്നു അതിനാൽ ഇത് ഒരു അബ്സോലൂട്ട് മൂല്യവുമായി കൺവെർജ് ചെയ്യുന്നു കാരണം ഇത് ഇന്റഗ്രലിന്റെ മൂല്യത്തേക്കാൾ വലിയ മൂല്യമായിരിക്കും അതിനാൽ ഇത് സ്വാഭാവികമായും കൺവെർജ് ചെയ്താൽ ഇത് കൺവെർജ് ചെയ്യുന്നു കാരണം ഇവിടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മൂല്യമുണ്ട് കൂടാതെ പലതും ഈ റദ്ദാക്കൽ വരും ഒപ്പം ഇന്റഗ്രന്റിന്റെ സമ്പൂർണ്ണ മൂല്യം എടുക്കുമ്പോൾ ഈ മൂല്യം ഇവിടെയുള്ള മൂല്യത്തേക്കാൾ കുറവായിരിക്കും അതിനാൽ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ ഇന്റഗ്രൽ പൂർണ്ണമായും കൺവെർജ് ചെയ്യുകയില്ല സ്റ്റാൻഡേർഡ് ഉദാഹരണം ഇന്റഗ്രൽ കണ്ടിഷണലി കൺവെർജ് ചെയ്യുന്നുവെന്ന് അർത്ഥമാക്കുന്നു എന്നാൽ നമ്മൾ ഇവിടെ സമ്പൂർണ്ണ മൂല്യം എടുക്കുമ്പോൾ ഇന്റഗ്രന്റ് തുടർന്ന് ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നില്ല അതിനാൽ ആദ്യം ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നതായി ഞങ്ങൾ കാണിക്കും അത് ഇപ്പോൾ ഒരു നിസ്സാര ടാസ്ക്കാണ് അതിനാൽ ഈ രണ്ട് ഇന്റഗ്രലുകളുടെ ആകെത്തുകയായി ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ ഇന്റഗ്രൽ പ്രോപ്പർ ഇന്റഗ്രലാണെന്നത് ശ്രദ്ധിക്കുക അതിനാൽ സ്വാഭാവികമായും ഇത് കൺവെർജ് ചെയ്യുന്നു രണ്ടാമത്തേത് നമുക്ക് ചർച്ചചെയ്യേണ്ട ഇൻഫിനിറ്റിയുണ്ട് അതിനാൽ ഇത് പ്രോപ്പർ ഇന്റഗ്രലാണ് ഇവിടെ ഉദാഹരണം 1 തന്നിട്ടുണ്ട് p 1 നെക്കാൾ വലുതാണ് അതിനാൽ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ സ്വാഭാവികമായും ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ കൺവെർജ് ചെയ്യുന്നു അടുത്തതായി ഇന്റഗ്രന്റിൽ സമ്പൂർണ്ണ മൂല്യം എടുക്കുമ്പോൾ ഇന്റഗ്രന്റ് കൺവെർജ് ചെയ്യുന്നില്ലെന്നു ഞങ്ങൾ കാണിക്കും അതിനാൽ നമുക്ക് ഈ ഉദാഹരണം ഉണ്ട് കോൺവെർസ് ശരിയല്ലെന്ന് പറയുന്നു കാരണം ഇവിടെ നമുക്ക് ഇന്റഗ്രലിന്റെ കൺവെർജെൻസ് ഉണ്ട് പക്ഷേ ഇന്റഗ്രൽ പൂർണ്ണമായും കൺവെർജ് ചെയ്യുന്നില്ല ഇതിന് ചുറ്റുമുള്ള മറ്റൊരു വഴി വ്യക്തമാണ് എല്ലാ പോസിറ്റീവ് മൂല്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഈ ഇന്റഗ്രൽ നേടാനാകും അതിനാൽ സ്വാഭാവികമായും ഫംഗ്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് മൂല്യങ്ങൾ എടുക്കുമ്പോൾ അത് തീർച്ചയായും കൺവെർജ് ചെയ്യും അതിനാൽ ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നില്ലെന്ന് ഇവിടെ ഞങ്ങൾ കാണിക്കും അതിനാൽ ഞങ്ങൾ ഈ കേവല മൂല്യം എടുക്കുന്നു ഞങ്ങൾ ഇത് എന്നതിന്റെ ഒരു തുകയായി എഴുതുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ കൃത്യമായി ഈ ഇന്റഗ്രൽ ആണ് അതിനാൽ ഞങ്ങൾ ഇവിടെ n 0 പോലെ തകർക്കുന്നു അതിനാൽ നമ്മൾ 0 മുതൽ വരെ പോകുന്നു എന്നിട്ട് ഇന്റഗ്രന്റും മൂല്യവും പിന്നെ നമ്മൾ n 1 ൽ നിന്ന് പോകുന്നു അതിനാൽ അർത്ഥമാക്കുന്നത് π മുതൽ വരെയും അതിനാൽ ഞങ്ങൾ 0 മുതൽ വരെയും π മുതൽ 2π വരെയും തുടർന്ന് 2π മുതൽ 3π വരെയും എടുത്തിട്ടുണ്ട് അതിനാൽ 0 മുതൽ വരെയുള്ള റേഞ്ചിലെ ചെറിയ സെഗ്മെന്റുകളായി ഈ ഇന്റഗ്രൽ ഞങ്ങൾ വിഭജിച്ചിരിക്കുന്നു അതിനാൽ 0 മുതൽ വരെയും π മുതൽ 2π വരെയും തുടർന്ന് 2π മുതൽ 3π വരെയും മറ്റും ഈ സംഗ്രഹ രൂപത്തിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനാൽ ഈ ഇന്റഗ്രലിൽ എന്ന പകരക്കാരനെ ഞങ്ങൾ നിർമ്മിക്കുന്നു അതിനാൽ ഇത് മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ dx ഈ dy ആയി മാറും അതിനുശേഷം ഈ അതിനനുസരിച്ച് മാറ്റിസ്ഥാപിക്കും ഉം അതിനാൽ ഞങ്ങൾ ഇത് ഈ ഇന്റഗ്രലിൽ മാറ്റിസ്ഥാപിക്കുമ്പോൾ x എടുക്കുമ്പോൾ y 0 മൂല്യങ്ങൾ എടുക്കും അതിനാൽ ഇവിടെ ഈ ബന്ധം ആയതിനാൽ x കുറഞ്ഞ മൂല്യം ആയി എടുക്കുന്നു അതിനാൽ അതിനാൽ ഈ y മൂല്യം 0 ആയി എടുക്കും അതിനാൽ ഇത് ഇപ്പോൾ 0 ൽ നിന്ന് പോകുന്നു X മൂല്യം എടുക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ y മൂല്യം എടുക്കും അതിനാൽ ഇന്റഗ്രൽ 0 മുതൽ വരെയാണ് ഈ കേവല മൂല്യം അതിനാൽ നമുക്ക് ഉണ്ട് ഇവിടെയും x ന് പകരമായി ഉണ്ട് അതിനാൽ ഈ അസമത്വത്തെ ഈ സമത്വത്തിന്റെ മറ്റൊരു ഉപയോഗമായി ഞങ്ങൾ ഉപയോഗിക്കും ഉദാഹരണത്തിന് n 1 അതിനാൽ നമുക്ക് ഉണ്ട് അതായത് അതുപോലെ തന്നെ മറ്റ് n നും അതിനാൽ ഞങ്ങൾക്ക് ടെക്നോമാട്രിക് സമത്വം ഉണ്ട് ഈ ന്യൂമറേറ്ററിൽ ഉണ്ട് അതിനാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ മൈനസ് 1 പവർ n എന്ന ന്യൂമറേറ്ററിൽ ഉണ്ട് തുടർന്ന് നമുക്ക് ഇത് ഇവിടെ ഉണ്ടായിരുന്ന അതേ ഇന്റഗ്രൽ അതിനാൽ ഈ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ സംഗ്രഹം നമുക്ക് ഉണ്ട് അതിനാൽ നമ്മൾ ഇപ്പോൾ സമ്പൂർണ്ണ മൂല്യം ഉപയോഗിക്കുന്നില്ലെന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ 0 മുതൽ വരെ പോസിറ്റീവ് മൂല്യങ്ങൾ എടുക്കും അവിടെ മൂല്യം 0 എടുക്കും തുടർന്ന് 1 എന്നിട്ട് ക്രമേണ 0 ലേക്ക് പോകുന്നു അതിനാൽ ഇത് ഒരിക്കലും 0 മുതൽ വരെ നെഗറ്റീവ് മൂല്യങ്ങൾ എടുക്കുന്നില്ല അതിനാൽ ഈ കേവല മൂല്യം ഞങ്ങൾ ഇവിടെ നീക്കംചെയ്തു അതിനാൽ ഈ സാഹചര്യത്തിൽ ഡിനോമിനേറ്റർ y ഇന്റഗ്രൽ 2 ൽ 0 മൂല്യം π മൂല്യത്തിൽ 0 ആയി എടുക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ വലുതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ y യെ വലിയ മൂല്യത്താൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്റർ ഇവിടെ യിൽ ഏറ്റവും വലിയ മൂല്യം എടുക്കും അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഈ y യെ ഈ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇവിടെ ഈ ഇന്റഗ്രൽ ഈ ഇന്റഗ്രലിനായി ചെറിയ ഇന്റഗ്രലായി മാറുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ വലുതാണെന്ന അസമത്വം നമുക്കുണ്ട് കാരണം ഇത് ഇപ്പോൾ എടുക്കുന്നു ഇന്റഗ്രന്റ് കുറഞ്ഞ മൂല്യം എടുക്കുന്നു കാരണം ഇത് ഡിനോമിനേറ്ററിനെ ഏറ്റവും കുറഞ്ഞ മൂല്യത്താൽ മാറ്റിസ്ഥാപിച്ചു ഇവിടെ ഏറ്റവും ഉയർന്ന മൂല്യം പൈ അതിനാൽ അതിനാൽ ഇത് ഒരു ചെറിയ അവിഭാജ്യ ഘടകമാണ്

ഇപ്പോൾ ഇവിടെ ഇതൊന്നുമില്ല കാരണം ഇവിടെ y ഇല്ല അതിനാൽ ഞങ്ങൾക്ക് ഇത് പുറത്തെടുക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾക്ക് പുറത്തെടുക്കാം അതിനാൽ ഞങ്ങൾക്ക് അവിടെ പൈ ഉണ്ട് കൂടാതെ നമുക്ക് വിലയിരുത്താനും കഴിയും അതിനാൽ ഈ സംഗ്രഹം n 0 മുതൽ ∞ വരെയും ആയതിനാലും അങ്ങനെ തന്നെ തുടരും അതിനാൽ നമുക്കും ഇത് ഇവിടെയുണ്ട് അതിനാൽ ഉം ഈ n 1 ഉം അതിനാൽ അല്ലെങ്കിൽ വീണ്ടും എഴുതട്ടെ സമേഷൻ n 0 മുതൽലേക് പോകുന്നു ഇത് ഇന്റഗ്രൽ 0 മുതൽ ലേക് പോകുന്നു കൂടാതെ നമുക്ക് ഉണ്ട് അതിനാൽ ഇത് cos y യായിരിക്കും തുടർന്ന് 0 മുതൽ π y വരെ അതിനാൽ മാറ്റിസ്ഥാപിക്കുമ്പോൾ അവിടെ 1 ഉണ്ടാകും അതിനാൽ മൈനസ് മൈനസ് പ്ലസ് ആയിരിക്കും തുടർന്ന് മൈനസ് മൈനസ് വീണ്ടും പ്ലസ് ആയിരിക്കും അതിനാൽ 1ന് ഇവിടെ മൂല്യം 2 നൽകണം അതിനാൽ ഇത് 2 കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ നമുക്ക് ഉണ്ട് അതിനാൽ ഈ ഇന്റഗ്രൽ 1 ന് തുല്യമാണ് ഇത് ഇവിടെ അറിയപ്പെടുന്ന ഒരു സീരീസ് ആണ് ഇത് ഒരു ഡൈവേർജെന്റ് സീരീസ് ആണ് തുക ∞ യുമാണ് അതിനാൽ കേവല മൂല്യത്തോടെയാണ് ഞങ്ങൾ ഈ ഇന്റഗ്രൽ ആരംഭിച്ചത് ഇത് ഈ ശ്രേണിയുടെ ആകെതുകയായ യെക്കാൾ വലുതാണ് അതിനാൽ ഈ ഇന്റഗ്രൽ ഡൈവേർജെന്റ് ഇന്റഗ്രലാണ് കാരണം ഇന്റർവെൽ മൂല്യം b തുകയുടെ മൂല്യത്തേക്കാൾ വലുതായിരിക്കും അത് ഇതിനകം ലേക്ക് വരുന്നു അതിനാൽ അത്തരം സാഹചര്യത്തിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു ഡിറിക്ലെറ്റ് ടെസ്റ്റ് നിഗമനം അനുസരിച്ചു എല്ല ഇന്റഗ്രൽ b a ക്കുo യൂണിഫോം ബൌണ്ടഡ്നെസ്സ് കാണിക്കാൻ കഴിയുo ആകുമ്പോൾ മോണോടോൺ g 0ലേക് കുറയുന്നു അപ്പോൾ ഇന്റഗ്രന്റ് കൺവെർജ് ചെയുന്നു അബ്സോല്യൂട്ട് കൺവെർജെൻസ്നെക്കുറിച്ചും ഞങ്ങൾ ഇവിടെ ചർച്ചചെയ്തു ഇതിനു തികച്ചും കൺവെർജ് ചെയ്യാത്ത ഒരു ഉദാഹരണം ഞങ്ങൾ കണ്ടു പക്ഷേ ഈ ഇന്റഗ്രന്റിനു അബ്സോല്യൂട്ട് വാല്യൂ എടുക്കുന്നില്ലെങ്കിൽ അത് കൺവെർജ് ചെയുന്നു അതിനാൽ ഈ ലെക്ചർ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകളാണ് ഇവ വളരെ നന്ദി